നമുക്ക് ഇപ്പോൾ ഒരു MOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് ഒരു ആംപ്ലിഫയറിന്റെ ബേസിക് ടോപ്പോളജി ഉണ്ട് എന്നാൽ നമ്മൾ പരിഹരിക്കേണ്ട രണ്ട് പ്രശ്നങ്ങളുണ്ട് അവ ഇവിടെ പരാമർശിച്ചിട്ടുണ്ട് ഒന്നാമതായി ഒന്നിലധികം dc വയർ സോഴ്സ്കളുടെ ആവശ്യകത നമ്മൾ ഇല്ലാതാക്കണം നമ്മുടെ സർക്യൂട്ട് ഒരൊറ്റ ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് കൂടാതെ സോഴ്സും ലോഡും ഗ്രൌണ്ട് റഫറൻസ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് അതായത് നമുക്ക് ഒരു സോഴ്സും ലോഡും ഉപയോഗിക്കാൻ കഴിയേണ്ടതുണ്ട് രണ്ട് ടെർമിനലുകളിൽ ഒന്ന് ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതാണ് സർക്യൂട്ടിന്റെ കോമൺ റഫറൻസ് നോഡ് അതിനാൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കും ആദ്യം നമ്മൾ എളുപ്പമുള്ളത് എടുക്കും അത് രണ്ടാമത്തേതാണ് ഏത് സർക്യൂട്ടിലും നമുക്ക് ഒന്നിലധികം dc വോൾട്ടേജുകൾ ആവശ്യമാണ് നമ്മുടെ ഈ പ്രത്യേക ഉദാഹരണത്തിൽ നമുക്ക് 23 വോൾട്ടും 3 വോൾട്ടും ആവശ്യമാണ് ഒരു വലിയ വോൾട്ടേജിൽ നിന്ന് ഒരു ചെറിയ വോൾട്ടേജ് സൃഷ്ടിക്കുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ഒരു റെസിസ്റ്റീവ് ഡിവൈഡർ ഉപയോഗിക്കാം അതിനാൽ നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജുകളിൽ ഏറ്റവും ഉയർന്ന മൂല്യം ആ സോഴ്സിന്റെ മൂല്യമാണെന്ന് നമ്മൾ അനുമാനിക്കും ഈ സാഹചര്യത്തിൽ നമുക്ക് ഇരുപത്തിമൂന്ന് വോൾട്ട് സോഴ്സ്ണ്ട് ചെറിയ വോൾട്ടേജ് ആണ് വേണ്ടതെങ്കിൽ വലിയ വോൾട്ടേജിൽ നിന്ന് നമ്മൾ അത് സൃഷ്ടിക്കും ഇത് വളരെ എളുപ്പമാണ് 3 വോൾട്ട് സൃഷ്ടിക്കാൻ നമുക്ക് 23 വോൾട്ട് ഉണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഒരു റെസിസ്റ്റീവ് ഡിവൈഡർ ഉണ്ടാകുക എന്നത് മാത്രമാണ് ഒന്നും ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ വോൾട്ടേജ് 23 വോൾട്ട് ഗുണിക്കണം R 2 ഹരിക്കണം R1 പ്ലസ് R2 ആയിരിക്കും വാസ്തവത്തിൽ മുഴുവൻ സർക്യൂട്ടും കൃത്യമായി ഒരു തെവെനിൻ ഇക്യുവാലെൻറ് വോൾട്ടേജ് സോഴ്സിന്റെ മാതൃകയിലാക്കാൻ കഴിയും ഇത് 23 volts R2 ബൈ R1 പ്ലസ് R2 R1 പാരലൽ R2 ന് സീരീസ് ആണ് ഇത് ഈ പോയിന്റിനും ഗ്രൌണ്ടിനും ഇടയിലുള്ള തെവെനിൻ ഇക്യുവാലെൻറാണ് അതിനാൽ R1 ന്റെയും R2ന്റെയും അനുപാതം ക്രമീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇവിടെ 3 വോൾട്ട് വോൾട്ടേജ് ലഭിക്കും ഇതിന് ഒരു സീരീസ് റെസിസ്റ്റൻസ് R1 സമാന്തരം R2 ലഭിക്കും അതിനാൽ ഈ ഭാഗം വളരെ എളുപ്പമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 3 വോൾട്ട് ഉണ്ടായിരുന്നു കൂടാതെ നമുക്ക് ഒരു സിഗ്നൽ സോഴ്സ് Vs ഉണ്ട് ഇത് Rs മായി സീരീസും MOS ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റിനും സോഴ്സിനും കുറുകേയുമായിരിക്കും നമുക്ക് 3 വോൾട്ട് പ്ലസ് Vs വേണം എളുപ്പത്തിൽ ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ ഇപ്പോൾ കാണും എനിക്ക് രണ്ട് ഒരേപോലുള്ള വോൾട്ടേജ് സ്രോതസ്സുകളുണ്ടെന്ന് കരുതട്ടെ ഞാൻ അവയെ Va Vb എന്ന് വിളിക്കും ഇത് ഈ R ന്റെ സങ്കീർണ്ണത ഒഴിവാക്കാൻ മാത്രമാണ് ഇത് കണക്കിലെടുക്കുന്നത് വളരെ എളുപ്പമാണ് പക്ഷേ എന്റെ പദപ്രയോഗങ്ങൾ കഴിയുന്നത്ര ലളിതമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു dc ബയാസ് വോൾട്ടേജിന് ചേർന്ന Va സിഗ്നലിനോട് ചേർന്ന Vb എന്നിവയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഇതിൽ നിന്ന് ഞാൻ Va Vb എന്നിവയുടെ കോമ്പിനേഷൻ സൃഷ്ടിക്കണം വാസ്തവത്തിൽ എനിക്ക് വേണ്ടത് Va Vb ആണ് പക്ഷേ എനിക്ക് ആൽഫാ Va പ്ലസ് ബീറ്റ Vb ആണ് ലഭിക്കുന്നത് അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും Va അല്ലെങ്കിൽ Vb യുടെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് ലഭിക്കുന്നത് വച്ച് ചെയ്യാം അടിസ്ഥാനപരമായി സിഗ്നലിലേക്ക് dc ബയസ് ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പദപ്രയോഗം അത്തരം ഒരു കൂട്ടലിനെ സൂചിപ്പിക്കുന്നു Va ഒരു dc ബയസ് ആണെങ്കിൽ Vb സിഗ്നലാണ് ഇത് ഈ ആൽഫ ടൈംസ് ഉള്ള dc ബയസിനെ ബീറ്റാ ടൈംസ് ഉള്ള സിഗ്നലുമായി കൂട്ടുന്നു അവസാനമായി എനിക്ക് dc പ്ലസ് സിഗ്നലിന്റെ രൂപത്തിലുള്ള ഒന്ന് കിട്ടുന്നു അതിനാൽ ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ലീനിയർ കോമ്പിനേഷൻ ലഭിക്കാൻ എനിക്ക് Va Vb എന്നിവ ഉണ്ടെങ്കിൽ അത് ആൽഫാ Va പ്ലസ് ബീറ്റ Vb ആണ് നിങ്ങൾക്ക് ഏത് സർക്യൂട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ചിന്തിക്കുക വളരെ ലളിതമാണ് ഒന്നാമതായി നിങ്ങൾ ഈ രണ്ട് വോൾട്ടേജുകൾ ഏതെങ്കിലും ലീനിയർ സർക്യൂട്ടിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് രണ്ട് വോൾട്ടേജുകളുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും അതാണ് ലീനിയർ സർക്യൂട്ടിന്റെ നിർവചനം ഇപ്പോൾ ലളിതമായ സർക്യൂട്ട് വീണ്ടും ഒരു വോൾട്ടേജ് ഡിവൈഡറായി മാറുന്നു ഞാൻ ഇതിനെ Ra R b എന്ന് വിളിക്കാം ഇപ്പോൾ ഈ സമയത്ത് ആൽഫയുടെയും ബീറ്റയുടെയും മൂല്യങ്ങൾ കണ്ടുപിടിക്കുക ഇത് ആൽഫ Va പ്ലസ് ബീറ്റാ Vb നൽകും അതിനർത്ഥം ഈ പോയിന്റിനും ഗ്രൌണ്ടിനും ഇടയിൽ നിങ്ങൾക്ക് ആൽഫ Va പ്ലസ് ബീറ്റ Vb ഉണ്ടായിരിക്കും ആൽഫയുടെയും ബീറ്റയുടെയും മൂല്യങ്ങൾ ദയവായി കണ്ടുപിടിക്കുക നിങ്ങൾക്ക് ഈ സമയത്ത് ഇവിടെ ലഭിക്കുന്ന വോൾട്ടേജ് Va ഗുണനം Rb ബൈ Ra പ്ലസ് Rb പ്ലസ് Vb ഗുണനം Ra ബൈ Ra പ്ലസ് Rb ആയിരിക്കും എന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാം അതിനാൽ നമുക്ക് Va Vb എന്നിവയുടെ ലീനിയർ കോമ്പിനേഷനുണ്ട് എന്നാൽ പ്രശ്നം നമുക്ക് ചില അറ്റന്വേഷൻ ഉണ്ട് എന്നതാണ് അതായത് Va ചില ഘടകങ്ങളാൽ കുറയുന്നു കൂടാതെ Vb യും ഈ ഘടകത്താൽ കുറയുന്നു ചിലപ്പോൾ നിങ്ങൾക്കിത് അംഗീകരിക്കേണ്ടിവരും നിങ്ങൾക്ക് Va യേക്കാൾ ചെറുതും Vb യേക്കാൾ ചെറുതും ലഭിക്കും ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇവിടെ 3 വോൾട്ട് വേണമെങ്കിൽ 3 വോൾട്ടിനേക്കാൾ വലുപ്പമുള്ള Va ഉപയോഗിച്ച് ആരംഭിക്കണം ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 3 വോൾട്ട് ലഭിക്കും അതുപോലെ നമ്മൾ ആരംഭിക്കുന്നത് Vs ന് തുല്യമായ ഒരു Vb യിൽ നിന്നാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത് Vs നേക്കാൾ ചെറുതായിരിക്കും അതിനർത്ഥം ചില സിഗ്നലുകൾ നഷ്ടപ്പെട്ടുവെന്നാണ് നിങ്ങൾ അത് അംഗീകരിക്കേണ്ടതുണ്ട് എന്നാൽ മിക്ക കേസുകളിലും ഇതിനെക്കാൾ നന്നായി നമുക്ക് ചെയ്യാൻ കഴിയും നമുക്ക് dc ബയസ് അല്ലെങ്കിൽ സിഗ്നൽ നഷ്ടപ്പെടേണ്ടതില്ല എന്തുകൊണ്ടെന്ന് നമ്മൾ കാണും അതിനാൽ വീണ്ടും Va യെ dc ബയാസായും Vb യെ സിഗ്നലായും ചിന്തിക്കാം സിഗ്നലിനെ ഒരു ഫ്രീക്വൻസി ഒമേഗ നോട്ടിന്റെ സിനുസോയിഡായി നിങ്ങൾക്ക് ചിന്തിക്കാനാകും എന്നതാണ് കൂടുതലായി കണ്ടുവരുന്ന സാഹചര്യം ഇത് പൂജ്യത്തേക്കാൾ കൂടുതലാണ് അതിനാൽ dc അല്ല ഇത് dc അല്ലാതെ ഫ്രീക്വെൻസി ഉള്ള ഒരു സിഗ്നലാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് സിനുസോയ്ഡൽ ക്വാണ്ടിറ്റികൾ ഉള്ളതിനാൽ നമുക്ക് സിനുസോയ്ഡൽ സ്റ്റെഡി സ്റ്റേറ്റ് അനാലിസിസ് നടത്തണം ചെറിയ വ്യതിയാനങ്ങൾ മാത്രമുള്ള ഒരേ സർക്യൂട്ട് ഞാൻ പരിഗണിക്കാം റെസിസ്റ്ററുകൾക്ക് പകരമായി ഞാൻ ഫ്രീക്വെൻസിയെ ആശ്രയിച്ചുള്ള Za Zb എന്ന ഇംപെൻഡൻസുകൾ ഉപയോഗിക്കും ഇപ്പോൾ ഇവിടെ വോൾട്ടേജ് എന്തായിരിക്കും അടിസ്ഥാന ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിൽ നിന്ന് സ്റ്റെഡി സ്റ്റേറ്റ് സർക്യൂട്ടിൽ നിങ്ങൾക്ക് ഫ്രീക്വെൻസിയെ ആശ്രയിച്ചുള്ള ഭാഗങ്ങൾ ഉള്ളപ്പോഴും എന്നാൽ സിനുസോയ്ഡൽ വോൾട്ടേജുകളോ കറൻറുകളോ ഉള്ളപ്പോഴും നിങ്ങൾക്ക് സിനുസോയ്ഡൽ സ്റ്റെഡി സ്റ്റേറ്റ് അനാലിസിസ് ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്കറിയാം ഈ അനാലിസിസ് റെസിസ്റ്ററുകൾ മാത്രം അടങ്ങിയിരിക്കുന്ന സർക്യൂട്ടുകൾ പോലെ വളരെ എളുപ്പമാണ് അതിനാൽ നിങ്ങൾ സിനുസോയ്ഡൽ സ്റ്റെഡി സ്റ്റേറ്റ് അനാലിസിസ് അല്ലെങ്കിൽ ഫേസർ അനാലിസിസ് അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് സിനുസോയിഡുകൾ ഉള്ളപ്പോൾ നിങ്ങൾക്ക് സ്റ്റെഡി സ്റ്റേറ്റ് എളുപ്പത്തിൽ വിലയിരുത്താൻ കഴിയും അതിനാൽ ഇവിടെയുള്ള സ്റ്റെഡി സ്റ്റേറ്റ് വോൾട്ടേജ് എന്തായിരിക്കും ഞാൻ ഇതിനെ Vx എന്ന് വിളിച്ചാൽ Vx എന്നത് Va ഗുണനം Zb ബൈ Za പ്ലസ് Zb പ്ലസ് Vb ഗുണനം Z a ബൈ Z a പ്ലസ് zb ആയിരിക്കും സാധാരണഗതിയിൽ ഇവയ്ക്കായി നിങ്ങൾ ഫേസർ നൊട്ടേഷൻ ഉപയോഗിക്കുന്നു ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു പ്രധാന കാര്യം നിങ്ങൾ ഒന്നിലധികം സോഴ്സ്കൾ ഉപയോഗിച്ച് സിനുസോയ്ഡൽ സ്റ്റെഡി സ്റ്റേറ്റ് അനാലിസിസ് നടത്തുമ്പോൾ എല്ലാ സോഴ്സ്കളും ഒരേ ആവൃത്തിയിലായിരിക്കണം അതായത് അനാലിസിസിന്റെ ഓരോ ഘട്ടത്തിലും അവ ഒരേ ആവൃത്തിയിലായിരിക്കണം Va എന്നത് dc യും Vb മറ്റേതെങ്കിലും ആവൃത്തിയുമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ പൊതുവായി അവ രണ്ട് വ്യത്യസ്ത ആവൃത്തികളിലാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ആവൃത്തിയിൽ അനാലിസിസ് നടത്തണം എന്നിട്ട് മറ്റേ ആവൃത്തിയിലും അനാലിസിസ് നടത്തണം അതിനാൽ സിനുസോയ്ഡൽ സ്റ്റെഡി സ്റ്റേറ്റ് അനാലിസിസിന്റെ അടിസ്ഥാനകാര്യങ്ങൾ നിങ്ങൾക്ക് പരിചിതമല്ലെങ്കിൽ അത് പുതുക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു നിങ്ങൾക്ക് ഒന്നിലധികം ആവൃത്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവ ഇപ്പോഴും വിശകലനം ചെയ്യാൻ കഴിയും എന്നാൽ നിങ്ങൾ ഓരൊ സമയവും ഒരു ഫ്രീക്വെൻസി മാത്രമെടുത്ത് വിശകലനം ചെയ്യണം കാരണം ഈ സങ്കീർണ്ണമായ ഇംപിഡെൻസുകളുടെ മൂല്യങ്ങൾ ഫ്രീക്വെൻസിക്ക് അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും അതിനാൽ നിങ്ങൾ ഒരു സമയം ഒരു ഫ്രീക്വൻസിയിൽ വേണം ചെയ്യാൻ ഇനി നമുക്ക് നമ്മുടെ കേസിലേക്ക് മടങ്ങാം ഇപ്പോൾ നമുക്ക് ഫ്രീക്വെൻസികളുണ്ട് dc യും ഒരു ഒമേഗ നോട്ടും Va ക്ക് dc മാത്രമേ ഉള്ളുവെന്നും Vb ക്ക് ഒമേഗ നോട്ട് മാത്രമേ ഉള്ളുവെന്നും നമ്മൾ പറഞ്ഞിരുന്നു അതിനാൽ നമുക്ക് രണ്ട് ഫ്രീക്വെൻസികൾ ഉണ്ട് dc ഉം ഒമേഗ നോട്ടും അതിനാൽ ആദ്യം നമ്മൾ dc യിൽ വിലയിരുത്തുന്നു ഫോർമുല ഒക്കെ സമാനമാണ് Vx നുള്ള ഫോർമുല ഈ പദപ്രയോഗം നൽകുന്നു ഇത് എല്ലായ്പ്പോഴും സാധുവാണ് ഒരേയൊരു കാര്യം dc യിൽ Va ക്ക് ഒരു നിശ്ചിത dc മൂല്യമുണ്ട് കൂടാതെ പൂജ്യം ഫ്രീക്വെൻസിയിലുള്ള ഇംപിഡെൻസുകൾ നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട് Vb ക്ക് dc ഘടകങ്ങളൊന്നുമില്ലെന്ന് നമ്മൾ അനുമാനിക്കുന്നു അതിനാൽ ആ ഭാഗം പൂജ്യമാണ് ഒമേഗ നോട്ടിൽ Va യുടെ ഘടകം ഉണ്ട് കാരണം ഇത് dc ബയസ് ആണെന്ന് നമ്മൾ അനുമാനിക്കുന്നു ആദ്യത്തേത് Va കാരണവും Vb കാരണവും പൂജ്യമാണ് അത് സിനുസോയിഡിന്റെ ഏറ്റവും ഉയർന്ന മൂല്യം ഗുണനം ഒമേഗ നോട്ടിൽ ഉള്ള Za ഡിവൈഡെഡ് ബൈ ഒമേഗ നോട്ടിൽ ഉള്ള Z a പ്ലസ് ഒമേഗ നോട്ടിൽ ഉള്ള Z b അതിനാൽ ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഇത് അനുപാതമാണ് എന്നതാണ് ഇത് പൂജ്യം ആവൃത്തിയിൽ വിലയിരുത്തപ്പെടുന്നു കൂടാതെ ഇത് ഒമേഗ നോട്ട് ആവൃത്തിയിൽ വിലയിരുത്തപ്പെടുന്നു അതിനാൽ ഈ രണ്ട് അനുപാതങ്ങളും ഒന്നായി മാറ്റാൻ കഴിയും മുൻപത്തെ dc ഒമേഗ നോട്ട് എന്നിവയിലുള്ള സിഗ്നലുകൾ രണ്ടു വ്യത്യസ്ത ആവൃത്തികളിൽ വിലയിരുത്തിയതുപോലെ ഈ എക്സ്പ്രഷനുകളും പരസ്പരം പൂരകമാണ് അതിനാൽ ഇത് ഏകദേശം ഒന്നായിത്തീരുന്നതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്തെന്നാൽ നിങ്ങൾക്ക് Zb ഓഫ് സീറോ Za ഓഫ് സീറോയേക്കാൾ വളരെ വലുതായിരിക്കണം അതായത് dc യിൽ Zb യുടെ മൂല്യം dc യിൽ Za യുടെ മൂല്യത്തേക്കൾ കൂടുതലായിരിക്കണം അതുപോലെ ഇത് ഏകദേശം ഒന്നായിരിക്കണമെങ്കിൽ ഒമേഗ നോട്ടിൽ Zb യേക്കാൾ ഒമേഗ നോട്ടിൽ Za നമുക്ക് ഉണ്ടായിരിക്കണം അതിനാൽ ഇതൊക്കെയാണ് ഇതിലുള്ളത് കൂടാതെ നിരവധി കോമ്പിനേഷനുകൾ സാധ്യമാണ് ഈ രണ്ട് ബന്ധങ്ങളിൽ നിന്നും ഇത് പൂജ്യത്തിൽ നിന്ന് ഒമേഗ നോട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ രണ്ടും നടന്നാൽ ഒന്നുകിൽ Zb യുടെ ഇംപെഡൻസ് ആവൃത്തിയോടൊപ്പം കുറയുകയോ Za യുടെ ഇംപെഡൻസ് ആവൃത്തിയോടൊപ്പം വർദ്ധിക്കുകയോ വേണം അതിനാൽ സാധ്യമായ നിരവധി ബദലുകൾ ഉണ്ട് നമുക്ക് Va ഉണ്ട് അത് dc യിലും Vb ഒമേഗ നോട്ടിലുമാണ് കൂടാതെ നമുക്ക് Za Zb എന്നിവയുണ്ട് ഇപ്പോൾ നമുക്ക് R C എന്നിവ ഉണ്ടാകാം ഈ സാഹചര്യത്തിൽ അടിസ്ഥാനപരമായി Za ഇവിടെ എല്ലായ്പ്പോഴും സ്ഥിരമായിരിക്കും അത് R ആണ് Zb ഓഫ് സീറോ ഇൻഫിനിറ്റിയാണ് dc യിലെ കപ്പാസിറ്ററിന്റെ ഇംപെഡൻസ് ഇൻഫിനിറ്റി ആയിരിക്കും അതിനാൽ ആദ്യത്തെ അവസ്ഥ തൃപ്തികരമാണ് അതായത് 1 ബൈ ഒമേഗ നോട്ട് C നെക്കാൾ വളരെ വലുതാണ് R എന്ന കാര്യം കൂടി C യുടെ കപ്പാസിറ്റൻസ് മൂല്യം തിരഞ്ഞെടുക്കുമ്പോൾ നോക്കേണ്ടതുണ്ട് അതിനാൽ ഇതാണ് ആദ്യത്തെ സാധ്യത രണ്ടാമത്തെ സാധ്യത നിങ്ങൾക്ക് L ഉം R ഉം ഉണ്ടെങ്കിൽ ആദ്യത്തേത് സ്വയം സംതൃപ്തമാണ് കാരണം ഇൻഡക്റ്ററിന്റെ ഇംപെഡൻസ് Za ഓഫ് സീറോ dc യിൽ പൂജ്യവും R അതിനെക്കാൾ വളരെ കൂടുതലുമാണ് രണ്ടാമത്തെ അവസ്ഥയെ തൃപ്തിപ്പെടുത്തുന്നതിനായി ഒമേഗ നോട്ട് L R നെക്കാൾ വളരെ വലുതായിരിക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ L ന്റെ മൂല്യം തിരഞ്ഞെടുക്കേണ്ടത് അവസാനമായി മൂന്നാമത്തെ ബദൽ L C എന്നിവ എടുക്കുന്നതാണ് ആദ്യത്തേത് സംതൃപ്തമാകുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം dc യിൽ ഇതിന് ഇൻഫൈനൈറ്റ് ഇംപെഡൻസും ഇതിന് പൂജ്യം ഇംപെഡൻസും ഉണ്ട് അതിനാൽ ആദ്യത്തേത് സ്വയം സംതൃപ്തമാണ് കൂടാതെ one by omega naught C നേക്കാൾ വലുതായിരിക്കുന്ന രീതിയിൽ നിങ്ങൾ omega naught L തിരഞ്ഞെടുക്കണം അതിനാൽ ഈ നെറ്റ്വർക്കിന് ധാരാളം ബദലുകൾ ഉണ്ട് അതിനാൽ അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് dc അല്ലാത്ത സിഗ്നലിലേക്ക് dc കൊടുക്കാനാണ് ഇത് ചില ഫ്രീക്വൻസി ഒമേഗ നോട്ട് ഉള്ള സിനുസോയിഡ് ആണ് മാത്രമല്ല നമുക്ക് നിരവധി സാധ്യതകളുണ്ട് ഇത് Va യും ഇത് Vb യും ആണ് അതിനാൽ നമുക്ക് R C അല്ലെങ്കിൽ L C ഉണ്ട് ഇതും സാധ്യമാണ് അല്ലെങ്കിൽ അവസാനമായി നമുക്ക് LR എന്നിവ ഉണ്ടാകാം ഇതെല്ലാം റിയാക്ടീവ് ഘടകങ്ങളുടെ ഉചിതമായ തിരഞ്ഞെടുപ്പിലൂടെ സാധ്യമാണ് ഈ ഇംപെഡൻസ് ഡിവൈഡറിലെ ഘടകങ്ങളിലൊന്നെങ്കിലും ഫ്രീക്വെൻസി ഡിപെൻഡെന്റ് ആകണം എന്നത് വളരെ വ്യക്തമാണ് കാരണം നമുക്ക് ഇവിടെ പരസ്പരവിരുദ്ധമായ ആവശ്യകതകളുണ്ട് dc യിൽ Za യുടെ അളവിനേക്കാൾ Zb കൂടുതലായിരിക്കണം ഒമേഗ നോട്ടിൽ Zb യുടെ അളവ് Za യെക്കാൾ വളരെ ചെറുതായിരിക്കണം കുറഞ്ഞത് ഈ ഘടകങ്ങളിൽ ഒന്നെങ്കിലും ഫ്രീക്വെൻസി ഡിപെൻഡെന്റ് ആയിരിക്കണം അതിനാൽ ഈ നിബന്ധനകൾ തൃപ്തികരമാണെങ്കിൽ ഒമേഗ നോട്ടിൽ നമുക്ക് Va dc Vb ഉണ്ടായിരിക്കും അതിനാൽ ഇത് രണ്ട് സിഗ്നലുകളുടെ ആകെത്തുക പോലെയാണ് ഇത് ചില ഇംപെഡൻസ് ഡിവിഷനാണ് പക്ഷേ ഡിവിഷൻ dc യിൽ Va യ്ക്ക് ഉപേക്ഷിക്കാവുന്നതും ഒമേഗ നോട്ടിൽ Vb ക്ക് ഉപേക്ഷിക്കാവുന്നതുമാണ് ഈ എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ഒരേപോലെ ലഭിക്കും അതിനാൽ ഈ നെറ്റ്വർക്കുകൾ ac കപ്ലിംഗ് നെറ്റ്വർക്കുകൾ എന്നറിയപ്പെടുന്നു ചിലപ്പോൾ അവയെ ഡീകപ്ലിംഗ് നെറ്റ്വർക്കുകൾ എന്ന് വിളിക്കുന്നു അതിനാൽ സിനുസോയ്ഡൽ ഫ്രീക്വെൻസിയിൽ ഉള്ളത് ഏതെങ്കിലും dc മൂല്യത്തിലേക്ക് നിങ്ങൾ ചേർക്കുന്നു എന്നതാണ് ആശയം ഇവ വളരെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതാണ് നിങ്ങളുടെ സിഗ്നലിൽ dc ഘടകങ്ങൾ ഉള്ളപ്പോൾ മാത്രം ഇവ ഉപയോഗിക്കാൻ കഴിയില്ല അതുപോലുള്ള സർക്യൂട്ടുകൾ ഉണ്ട് എന്നാൽ സിഗ്നലിന് dc ഘടകങ്ങളില്ലാത്ത കേസുകൾ മാത്രമേ നമ്മൾ ഇപ്പോൾ പരിഗണിക്കുകയുള്ളൂ ഇപ്പോൾ പൊതുവേ സിഗ്നൽ ഒരൊറ്റ ഫ്രീക്വൻസി സിഗ്നലല്ല പക്ഷേ അതിൽ ധാരാളം ഫ്രീക്വെൻസികൾ അടങ്ങിയിരിക്കുന്നു അത്തരം സാഹചര്യങ്ങളിൽ ഇവിടെ ഈ നിബന്ധനകൾ ഏറ്റവും കുറഞ്ഞ ഫ്രീക്വെൻസിയിൽ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് അതിനാൽ ഫ്രീക്വെൻസി ഏറ്റവും കുറയുന്നത് ഈ വ്യത്യാസങ്ങൾക്ക് ഏറ്റവും മോശമായ അവസ്ഥയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഏറ്റവും കുറഞ്ഞ ഫ്രീക്വെൻസികളിൽ ഇത് തൃപ്തിപ്പെടേണ്ടതുണ്ട്